എല്ലാവർക്കും നമസ്ക്കാരം "എൻഹാൻസിങ്ങ് സോഫ്റ്റ് സ്കിൽസ് ആൻഡ് പേഴ്സണാലിറ്റി" എന്ന ഈ കോഴ്സിലേക്ക് എല്ലാവര്ക്കും സ്വാഗതം ഞാൻ രവിചന്ദ്രൻ ഐ കാൺപൂരിൽ നിന്നും ഈ കോഴ്സ് NPTEL MOOC ൻറെ ഭാഗമാണ് ഇത് രണ്ടാമത്തെ ആഴ്ച ആണ് ഇന്ന് നമ്മൾ രണ്ടാമത്തെ ആഴ്ചയിലെ മൂന്നാമത്തെ യൂണിറ്റ്ലേക്ക് കടക്കും ഇത് നമ്മുടെ എട്ടാമത്തെ ക്ലാസ് ആണ് ഈ ആഴ്ച നമ്മൾ സംസാരിച്ച് തുടങ്ങിയത് വ്യക്തിത്വ വികസനത്തിൽ വളരെ വലിയ പങ്ക് വഹിക്കുന്ന സമയത്തെ കുറിച്ചായിരുന്നു സമയത്തെ നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് ടൈം മാനേജ്മെന്റ് നെ പറ്റിയാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത് ഈ ക്ലാസ്സിൽ നമുക്ക് ഡിലെ അഥവാ കാലതാമസം വരുന്നതിനെ എങ്ങനെ നേരിടാം എന്ന് നോക്കാം കാലതാമസത്തെ ഫലപ്രദമായി നേരിട്ടാൽ നിങ്ങൾക്ക് വളരെ മികച്ച രീതിയിൽ സമയം മാനേജ് ചെയ്യാൻ സാധിക്കും ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ പ്രോക്രാസ്റ്റിനേഷൻ എന്താണെന്നും എന്തുകൊണ്ട് നമ്മൾ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നു എന്നും മനസ്സിലാക്കണം അതിനെല്ലാം മുൻപ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച പ്രധാന കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് ഒന്നും കൂടി നോക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പഠിച്ചത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സമയം എങ്ങനെ കാര്യക്ഷമമായി വിനിയോഗിക്കാം എന്നതിനെ പറ്റിയാണ് ചർച്ച ചെയ്തത് കാര്യക്ഷമമായ ഉപയോഗം എന്നത് കൊണ്ട് ഞാൻ എന്താണ് ഉദ്ദേശിച്ചത് എന്നുവച്ചാൽ മൂല്യവത്തായ പ്രവർത്തിക്കൾ കണ്ടെത്തി ചെയ്യുക അതിനനുസരിച്ച് നമ്മുടെ ശീലങ്ങളും സമയത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും കൈകാര്യം ചെയ്യുക എന്നുമാണ് അതിനായി നിങ്ങൾക്ക് ചിട്ടയായ ഒരു പ്ലാൻ ഉണ്ടാകണം ചിട്ടയായ ഒരു പ്ലാൻ ഉണ്ടാക്കാനുള്ള ആദ്യ ചുവടുവയ്പ്പ് എന്നത് ജീവിതകാലത്തേക്ക് വേണ്ടി പ്ലാൻ ചെയ്യുക എന്നതാണ് ഇപ്പോൾ എന്ത് ചെയ്യും അടുത്ത നിമിഷം എന്ത് ചെയ്യും എന്നല്ല നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത് സ്റ്റീവൻ കവെ അദ്ദേഹത്തിന്റെ 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി ഇഫക്ടിവ് പീപ്പിൾ എന്ന പുസ്തകത്തിൽ പറയുന്നത് പോലെ ഫലംഅന്ത്യം എന്താണെന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് വേണം നിങ്ങൾ പ്ലാൻ ചെയ്യാൻ അതായത് നിങ്ങളുടെ കരിയറിൽ 10 വർഷമോ 20 വർഷമോ കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് മുന്നിൽ കണ്ടുകൊണ്ട് വേണം പ്ലാൻ ചെയ്യാൻ 50 വർഷത്തിന് ശേഷം എന്റെ ജീവിത്തൽ ഞാൻ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ പ്ലാൻ ചെയ്തതിന് ശേഷം സാധ്യമായ ലക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ജീവിതത്തെ വിഭജിക്കുക ഈ ലക്ഷ്യങ്ങളെ കാര്യക്ഷമവും അളക്കാവുന്നതും യാഥാർഥ്യ ബോധമുള്ളതും സമയനുബന്ധിതവും ആക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളുടെ ലക്ഷ്യങ്ങൾ കടലാസ്സിൽ എഴുതി വയ്ക്കുക കാരണം നിങ്ങൾ കടലാസ്സിൽ എഴുതി വയ്ക്കാത്ത പക്ഷം നിങ്ങൾക്ക് ഒരുപക്ഷെ അത് മനസ്സിൽ കാണാൻ സാധിക്കില്ല ജീവിത്തൽ വിജയിച്ചിട്ടുള്ള പല വ്യക്തികളും തങ്ങളുടെ ലക്ഷ്യങ്ങൾ കടലാസ്സിലോ ഭിത്തിയിലോ കണ്ണാടിയിലോ എന്തിന് കുളിമുറിയിൽ വരെ എഴുതിവെച്ചിട്ടുണ്ട് അവർ എഴുതിയിട്ടുള്ളത് ചെറിയ പദങ്ങളിലാണ് തങ്ങളുടെ ലക്ഷ്യങ്ങൾ കണ്ടെത്തുകയും അവ എഴുതി വയ്ക്കുകയും മനസ്സിൽ കാണുകയും ചെയ്തതിന് ശേഷം നിങ്ങളുടെ പ്രവർത്തികൾക്ക് ഒരു മുൻഗണന ക്രമം നിശ്ചയിക്കുക നിങ്ങളുടെയും നിങ്ങളുടെ ലക്ഷ്യത്തിന്റെയും ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ വന്ന് ചേർന്നേക്കാം അതുകൊണ്ട് ഏത് കാര്യത്തിനാണ് ഏറ്റവും മുൻഗണന കൊടുക്കേണ്ടതെന്ന് നിങ്ങൾ കണ്ടെത്തുക ഇങ്ങനെയൊരു മുൻഗണനാക്രമം നിശ്ചയിച്ചതിന് ശേഷം അതിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട പ്രവർത്തി ഏതാണെന്ന് കണ്ടെത്തുക ഇത് നിങ്ങളെ ആകെ കൂടെ സമ്മർദ്ദത്തിലാക്കി ഇപ്പോൾ തന്നെ ചെയ്തു തീർക്കേണ്ട പ്രവർത്തികളല്ല മറിച്ച് എന്ത് ചെയ്താലാണ് നിങ്ങളുടെ ജീവിതത്തിന് ഉയർച്ച കിട്ടുക ആ പ്രവർത്തിക്കാണ് നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത് അപ്പോൾ ആ പ്രവർത്തിയിൽ മുറുകെ പിടിച്ചിരിക്കുക നിങ്ങളുടെ ശ്രദ്ധ തിരിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സമയം നിങ്ങളുടെ കയ്യിൽ നിന്നും ചോർന്ന് പോകുന്നത് പരമാവധി ഒഴിവാക്കുക നമ്മൾ സമയം ചോർന്ന് പോകുന്നതിനെ പറ്റിയും തടസ്സങ്ങളെ പറ്റിയും ജോലി ഭാരം മറ്റുള്ളവരെ ഏല്പികാത്തിരിക്കുന്നതിനെ പറ്റിയും മറ്റുള്ളവരെ പ്രീതി പെടുത്തുന്നതിനായി "ഇല്ല" എന്ന് പറയാൻ സാധിക്കാത്തതിനെ പറ്റിയും സംസാരിച്ചു അത്പോലെ തന്നെ എല്ലാം താറുമാറായി കിടക്കുന്ന ചുറ്റുപാടുകളെ പറ്റിയും സംസാരിച്ചു അങ്ങനെ ഒരു ചുറ്റുപാടിൽ നമ്മൾ എന്ത് എവിടെ വച്ചു എന്ന് ഒരു രൂപവും കാണില്ല പിന്നെ ഓരോ ചെറിയ സാധനങ്ങൾ തപ്പാൻ വേണ്ടി ഒരുപാട് സമയം ചിലവഴിക്കേണ്ടതായി വരും ഇത്തരം കാര്യങ്ങൾ കൊണ്ടാണ് നിങ്ങളുടെ കയ്യിലുള്ള സമയം പ്രധാനമായും ചോർന്ന് പോകുന്നത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇമെയിൽ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതാണ് മെയിലുകൾ വായിക്കാൻ ഒരു നിശ്ചിത സമയം മാത്രം കൊടുക്കുക സ്പാം ഫിൽറ്റെർസ് ഉപയോഗിക്കുക മെയിലുകൾ വീണ്ടും വീണ്ടും വായിക്കേണ്ട കാര്യമില്ല അതുമാത്രമല്ല ഒരു തവണ വായിച്ച് പെട്ടെന്ന് തീരുമാനം എടുക്കേണ്ടതായിട്ടും ഉണ്ട് വീണ്ടും ഒരേ മെയിൽ വായിക്കുന്നത് സമയനഷ്ടമാണ് ഉചിതമായ ഫോൾഡർ ഉണ്ടാക്കി പ്രധാനപ്പെട്ട മെയിലുകൾ അതിൽ സൂക്ഷിക്കുക നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളുടെ ഇമെയിൽ കൈകാര്യം ചെയ്യുന്നു എന്ന് കാണിക്കുന്നത് നിങ്ങളുടെ ഇൻബോക്സ് ആണ് മെയിലുകൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഒരാളുടെ ഇൻബോക്സിൽ അനാവശ്യമായി ഒന്നും തന്നെ ഉണ്ടാകില്ല നമ്മുടെ സമയം കാർന്ന് തിന്നുന്ന മറ്റുചില കാര്യങ്ങളെ പറ്റിയും നമ്മൾ സംസാരിച്ചു അതായത് മടിപിടിച്ച ഒരു മൈൻഡ് സെറ്റ് സുഖം തേടി പോകാനുള്ള പ്രവണത എല്ലാം പിന്നത്തേക്ക് മാറ്റി വയ്ക്കാനുള്ള ത്വര ഇതിനെപറ്റിയാണ് നമ്മൾ ഈ ക്ലാസ്സിലും അടുത്ത ക്ലാസ്സിലും ചർച്ച ചെയ്യാൻ പോകുന്നത് ഇവയെല്ലാം നമ്മുടെ സമയം വേഗത്തിൽ നഷ്ടമാക്കും എന്തെങ്കിലും ചെയ്ത് തുടങ്ങാനുള്ള മടി അവസാനംഫലം എന്തായിരിക്കും എന്നതിനെ കുറിച്ച് ഒരു രൂപവും ഇല്ലാതിരിക്കുന്നത് എസ്കേപിസ്ററ് ടെൻഡൻസി അഥവാ യാഥാർഥ്യത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടം ഒരു അന്തവുമില്ലാത്ത ടീവി കാണൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് സ്വന്തം കാര്യത്തേക്കാൾ പ്രാധാന്യം നൽകുന്നത് ഇതെല്ലം നമ്മുടെ സമയം വെറുതെ പാഴാക്കി കളയുകയേ ഉള്ളു ഇതോടൊപ്പം ഞാൻ വേറെയും കുറച്ചു ടിപ്സ് തന്നിരുന്നു ഒരു കാര്യം ചെയ്തു തീർക്കാൻ ഒരു ഡെഡ്ലൈൻ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് വേണം ജോലി ചെയ്യാൻ ഡെഡ്ലൈൻ മിസ്സ് ആക്കാതെ ശ്രദ്ധിക്കുക "ടൈം സ്റ്റീലേഴ്സ്" നെ "ടൈം ഗിഫ്റ്റേഴ്സ്" ആക്കി മാറ്റിയെടുക്കുക നിങ്ങൾ എവിടെയോ പോകാൻ ഒരുങ്ങി നിൽക്കുമ്പോൾ ഫ്ലൈറ്റ് കാൻസൽ ആയി എന്ന് കരുതുക ഇത് ഒരു ടൈം സ്റ്റീലർ ആണ് അല്ലെങ്കിൽ നമ്മൾ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ട്രെയിൻ വൈകുന്നത് നമ്മുടെ സമയം നഷ്ടപ്പെടുത്തും അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമെന്ന് നമ്മൾ ചിന്തിച്ചിട്ട് കൂടി ഉണ്ടാവില്ല പക്ഷെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നതെങ്കിൽ ഈ ടൈം സ്റ്റീലേഴ്സ്നെ ടൈം ഗിഫ്റ്റേഴ്സ് ആക്കി മാറ്റാൻ നമുക്ക് സാധിക്കും ഇതുപോലെ നിനച്ചിരിക്കാതെ സമയം കയ്യിൽ വന്ന് ചേരുമ്പോൾ ആ സമയം പ്രയോജനപ്പെടുത്തി മറ്റെന്തെങ്കിലും കാര്യത്തിനായി വിനിയോഗിക്കുക പറ്റുമെങ്കിൽ ഒരു കവിത എഴുതുക അല്ലെങ്കിൽ ഒരു കൂടിക്കാഴ്ച നടത്തുക അങ്ങനെ സാധാരണ ഗതിയിൽ നിങ്ങൾ ചെയ്യാത്ത എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്യുക സ്റ്റീവൻ കവേ യുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിന് മുൻഗണന നൽകണം എന്ന ഒരു ആശയം പങ്കുവച്ചുകൊണ്ടായിരുന്നു ആ ക്ലാസ് അവസാനിപ്പിച്ചത് അതോടൊപ്പം തന്നെ "പരേറ്റോ പ്രിൻസിപ്പൽ" എന്ന വളരെ രസകരമായ ഒരു ആശയത്തെ പറ്റിയും ചർച്ച ചെയ്യുകയുണ്ടായി പരേറ്റോ പ്രിൻസിപ്പൽ പറയുന്നത് 80 20 എന്ന ആശയത്തെ പറ്റിയാണ് അതായത് നിങ്ങളുടെ 80 ഉത്പാദനക്ഷമത ആശ്രയിച്ചിരുന്നത് നിങ്ങളുടെ 20 പ്രവൃത്തിയിന്മേലാണ് അതുപോലെ തന്നെ നിങ്ങളുടെ 80 സമ്മർദ്ദങ്ങൾക്കും കാരണം വെറും 20 പ്രശ്നങ്ങളാണ് ഒന്ന് നോക്കിക്കേ വെറും 20 നിങ്ങൾ സമയം പാഴാക്കുകയാണെന്ന് കരുതുക പ്രവർത്തികൾ വൈകിച്ചും നാളേക്കായി മാറ്റി വച്ചും സമയം വെറുതെ കളയുമ്പോൾ അത് നിങ്ങളുടെ 80 ഉൽപ്പാദനക്ഷമതയെ ബാധിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ സമയം പാഴാക്കുന്നതിനെ ഒന്ന് പുനർവിചിന്തനം നടത്തുന്നത് നല്ലതായിരിക്കും കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ടൈം മാനേജ്മെന്റിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ കുറച്ച് വിദ്യാർഥികൾ എന്നോട് ഇങ്ങനെ പറയുകയുണ്ടായി " സർ ഇതെല്ലാം പറയാൻ എളുപ്പമായിരിക്കും പക്ഷെ ഞങ്ങൾ എത്ര തന്നെ ശ്രമിച്ചിട്ടും സമയപരിധിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് ജോലികൾ ചെയ്തു തീർക്കാൻ സാധിക്കുന്നില്ല അതുപോലെ തന്നെ ഞങ്ങളിൽ പലർക്കും മൂല്യവത്തായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ സാധിക്കുന്നുമില്ല" എന്ന് എന്തുകൊണ്ടാണിങ്ങനെ എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും നിങ്ങളുടെ "പ്രോക്രാസ്റ്റിനേഷൻ" അഥവാ "നീട്ടിവയ്ക്കൽ" പ്രവണത കൊണ്ടാണ് എന്ന് ഈയൊരു കാര്യത്തെ പറ്റി നിങ്ങൾക്ക് ചിലപ്പോൾ അറിവുണ്ടാകില്ല പക്ഷെ നിങ്ങൾ എത്ര തന്നെ സമയം മാനേജ് ചെയ്യാൻ ശ്രമിച്ചാലും നിങ്ങൾ പോലും അറിയാതെ ഈ പ്രോക്രാസ്റ്റിനേഷൻ ആണ് നിങ്ങളുടെ സമയം കൊല്ലുന്നത് അപ്പോൾ എന്താണ് പ്രോക്രാസ്റ്റിനേഷൻ എങ്ങനെ നമുക്ക് അതിനെ കൈകാര്യം ചെയ്യാം പ്രോക്രാസ്റ്റിനേഷൻ എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുൻപ് "പാർക്കിൻസൺസ് ലോ" Parkinson's Law എന്താണെന്ന് നമുക്ക് നോക്കാം വളരെ രസകരമായ ഒരു ലോ ആണ് പാർക്കിൻസൺസ് ലോ പക്ഷെ എന്താണ് ഈ പാർക്കിൻസൺസ് ലോ വളരെ ലളിതമാണ് "ചെയ്തു തീർക്കാനുള്ള ദൈർഘ്യത്തിനനുസരിച്ച് ജോലിയുടെ ദൈർഘ്യവും കൂടുന്നു" എന്നുവച്ചാൽ എന്താണ് ഉദാഹരണത്തിന് ഞാൻ നിങ്ങളോട് നാളെ രാവിലേയ്ക്കകം ഒരു ജോലി ചെയ്ത് തീർക്കാനുണ്ട് ഇല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുമെന്ന് പറയുന്നു എത്ര ഭാരപ്പെട്ട ജോലിയാണെങ്കിലും ഒരു ഉപേക്ഷയും കൂടാതെ വളരെ കഷ്ടപ്പെട്ട് നിങ്ങൾ പിറ്റേ ദിവസം രാവിലെ തന്നെ ആ ജോലി ചെയ്ത് തീർത്തിട്ടുണ്ടാകും എന്നാൽ പാർക്കിൻസൺസ് ലോ അനുസരിച്ച് ഞാൻ നിങ്ങളോട് ഒരു ജോലി നിങ്ങളുടെ സൌകര്യത്തിനനുസരിച്ച് ചെയ്തു തീർത്താൽ മതി എന്ന് പറഞ്ഞാൽ ആ ജോലി നിങ്ങൾ ഒരിക്കലും ചെയ്ത് തീർക്കില്ല അവസാനം എനിക്ക് തന്നെ നിങ്ങളോട് വന്ന് "നിങ്ങളുടെ സൌകര്യം എന്നത് കൊണ്ട് 5 വർഷം കഴിഞ്ഞിട്ട് ചെയ്ത് തീർക്കണമെന്നല്ല എനിക്ക് എത്രയും വേഗം തീർത്തു തരേണ്ട ജോലിയാണ്" എന്ന് പറയേണ്ട ഗതി വരും "നിങ്ങളുടെ സൌകര്യം" എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരുതി നിങ്ങൾ ഒരു മാസത്തിനകം ചെയ്ത് തീർക്കുമെന്ന് പകരം നിങ്ങൾ ആ ജോലി 5 വർഷം വരെ വെച്ചു വൈകിച്ചു അതേസമയം നാളെ രാവിലെ ചെയ്തു തീർത്തില്ലെങ്കിൽ നിങ്ങളുടെ ജോലി പോകും എന്ന് പറഞ്ഞപ്പോൾ കൃത്യമായി ചെയ്ത് തീർക്കാനും നിങ്ങൾക്ക് സാധിച്ചു എന്തുകൊണ്ടാണ് 5 മണിക്കൂർ കൊണ്ട് തീരേണ്ട ജോലി 5 വർഷമായിട്ടും പൂർത്തിയാകാഞ്ഞത് ഇതാണ് പാർക്കിൻസൺസ് ലോയിൽ പറയുന്നത് അതായത് നിങ്ങൾക്ക് ഒരു ഡെഡ്ലൈൻ തരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജോലിയും അത്ര തന്നെ നീളും അപ്പോൾ ഞാൻ എന്റെ വിദ്യാർഥികളോട് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനുള്ള അവസാന തീയതി ചൊവ്വാഴ്ച 1159 ആണ് അതിന് ശേഷം സമയം നീട്ടി തരുന്നതല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും ചൊവ്വാഴ്ചയ്ക്കോ ചിലപ്പോൾ അതിന് മുൻപോ തന്നെ അസൈൻമെന്റ് പൂർത്തിയാക്കും അതെസമയം ഡെഡ്ലൈൻ അടുത്ത ആഴ്ച വരെ നീട്ടി തരുന്നതായിരിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സമയപരിധിക്കുള്ളിൽ അസൈൻമെന്റ് ചെയ്തു തീർക്കാൻ സാധിച്ചെന്ന് വരില്ല ഇങ്ങനെ ഒരു കാരണവശാലും പൂർത്തിയാകില്ല എന്ന് പൂർണ ബോധ്യമുള്ളത് കൊണ്ട് ഞാൻ എന്റെ വിദ്യാർഥികൾക്ക് ഒരു ദിവസം പോലും ഡെഡ്ലൈൻ നീട്ടി കൊടുക്കാറില്ല കാരണം ഞാൻ പറഞ്ഞിരിക്കുന്ന സമയത്തിനുള്ളിൽ ചെയ്ത് തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് നന്നായി അറിയാം അപ്പോൾ പാർക്കിൻസൺസ് ലോ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം കാരണം നിങ്ങൾ ചെയ്യേണ്ട ജോലി വെറുതെ നീട്ടി കൊണ്ട് പോകുകയും അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി സമയം കളയുകയും ചെയ്യും അതുകൊണ്ടാണ് ബുദ്ധി ഉള്ളവർ പറയുന്നത് എന്തെങ്കിലും കാര്യം പെട്ടെന്ന് ചെയ്ത് തീർക്കണമെന്നുണ്ടെകിൽ നല്ല തിരക്കുള്ള ആർക്കെങ്കിലും കൊടുക്കുക എന്ന് അതായത് മുള്ളേൽ നിൽക്കുന്ന പോലെ തിരക്കുള്ള ആർക്കെങ്കിലും ചെയ്യാൻ കൊടുക്കുക ഈ വ്യക്തിക്ക് സ്വന്തമായി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ ഉണ്ടാകും പക്ഷെ നിങ്ങൾ അയാളുടെ സുഹൃത്ത് ആയതിന്റെ പേരിലോ അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥനായതിന്റെ പേരിലോ അയാൾ ആ ജോലി പെട്ടെന്ന് ചെയ്ത് തരും കാരണം അത് തീർത്തിട്ടു വേണം അയാൾക്ക് തന്റെ ജോലികൾ സമയത്തിനുള്ളിൽ ചെയ്ത് തീർക്കാൻ അതുകൊണ്ടാണ് തിരക്കുള്ള ഒരാൾക്ക് കൊടുത്താൽ വേഗം ജോലി തീർത്ത് കിട്ടും എന്ന് പറയുന്നത് അതേസമയം മടിയനായ ഒരു ആൾക്കാണ് നിങ്ങൾ ആ ജോലി ഏല്പിച്ചു കൊടുക്കുന്നതെങ്കിൽ അയാൾ ആ ജോലി ഒരിക്കലും സമയത്തിന് ചെയ്ത് തീർക്കാൻ പോകുന്നില്ല ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളോട് പറയുന്ന മറ്റൊരു പ്രധാന കാര്യം നിങ്ങൾ "നോ" അഥവാ "ഇല്ല" എന്ന് പറയാൻ ശീലിക്കുക ഈ വിഷയത്തെ പറ്റി നമ്മൾ എന്തായാലും അടുത്ത ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നതാണ് നിങ്ങൾ എന്ത് കാര്യം ഏറ്റെടുത്തലും നിങ്ങളുടെ പക്കലുള്ള ഒരു അവസരം നീക്കി വച്ചിട്ടാണ് നിങ്ങളാകാര്യം ചെയ്യുന്നതെന്ന് പ്രത്യേകം ഓർക്കണം ഇപ്പോൾ അസ്സൈന്മെന്റ് ചെയ്യേണ്ട സമയത്ത് കൂട്ടുകാരൻ വിളിച്ചിട്ട് സിനിമയ്ക്ക് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് സാവകാശമിരുന്ന് അസ്സൈന്മെന്റ് ചെയ്യാനുള്ള അവസരമാണ് നഷ്ടപ്പെടുത്തുന്നത് അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് അസ്സൈന്മെന്റ് സമയത്ത് വെക്കാൻ സാധിക്കാതെ വരും അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ കോപ്പിയടിച്ച് അത് ടീച്ചർ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് അസ്സൈന്മെന്റ്റിൽ പൂജ്യം മാർക്ക് കിട്ടിയെന്നും വരും അപ്പോൾ ജോലി ചെയ്യാനുള്ള അവസരം വെറുതെ കളഞ്ഞിട്ട് പിന്നീട് ദുഖിക്കുന്നതിലും നല്ലത് ഇപ്പോൾ സിനിമ കാണേണ്ടെന്ന് വയ്ക്കുന്നതാണ് നിങ്ങൾ മനസിലാക്കുക ഒരു കാര്യം ചെയ്യുമ്പോൾ മറ്റൊരു കാര്യം ചെയ്യാനുള്ള അവസരമാണ് നഷ്ടപെടുന്നതെന്ന് അവസരം കയ്യിലുള്ളപ്പോൾ ചെയ്യേണ്ട കാര്യം ചെയ്യാതെ വേറെ കാര്യങ്ങളിൽ ഏർപ്പെട്ട് പിന്നീട് "ശോ എനിക്കത് നന്നായി ചെയ്യാമായിരുന്നു" എന്ന് നിങ്ങൾ പറയും അതുകൊണ്ട് പ്രോക്രാസ്റ്റിനേഷൻ ഏതു വിധേനയും ഒഴിവാക്കുക ഏതു വിധേനയും എന്നത് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ശാരീരികമായും മാനസികമായും വൈകാരികമായും എന്ത് വില കൊടുത്തും പ്രോക്രാസ്റ്റിനേഷൻ ഒഴിവാക്കുക എന്നാണ് ഇനി കാശു കൊടുത്ത് നിങ്ങൾക്ക് മറ്റൊരാളെ കൊണ്ട് ജോലി ചെയ്യിക്കാൻ പറ്റുമെങ്കിൽ അതിനും മടിക്കരുത് അപ്പോൾ എന്ത് കാര്യവും സമയത്ത് തന്നെ എന്ത് വില കൊടുത്തും ചെയ്ത് തീർക്കുക എന്ത് വില കൊടുത്തും എന്ന് പറയുമ്പോൾ അതിന് കാശ് ചെലവാക്കേണ്ടി വന്നാലും വിഷമം വിചാരിക്കരുത് പകരം സമയത്ത് തന്നെ എല്ലാം ചെയ്ത് തീർക്കുക എന്തുകൊണ്ട് നിങ്ങൾ ഒന്നും വൈകിക്കരുത് ഒന്നും പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യരുത് എന്ന് പറയുന്നു എന്താണ് ഈ പ്രോക്രാസ്റ്റിനേഷൻ ഒരു പ്രവൃത്തി പ്രത്യേകിച്ചും പെട്ടെന്ന് ചെയ്ത് തീർക്കേണ്ട പ്രവൃത്തി പിന്നീട് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കുന്ന ശീലത്തെയാണ് പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത് The act or habit of putting off delaying or deferring an action to a later time especially when something requires immediate attention എത്രയും പെട്ടെന്ന് ചെയ്ത് തീർക്കേണ്ട ഒരു പ്രവൃത്തിയെ അല്ലെങ്കിൽ ഏറ്റവും മുൻഗണന നൽകേണ്ട പ്രവൃത്തിയെ പിന്നീട് ചെയ്യാം എന്ന് കരുതി തണുപ്പൻ മട്ടിൽ കണ്ട് നീട്ടികൊണ്ട് പോകുന്നതിനെയാണ് പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഈ വാക്കിന്റെ പദോല്പത്തി വളരെ രസകരമാണ് ഈ വാക്ക് ഉരുത്തിരിഞ്ഞിരിക്കുന്നത് "പ്രോ" എന്ന പദത്തിൽ നിന്നും "ക്രാസ്സ്" എന്ന പദത്തിൽ നിന്നുമാണ് "പ്രോ" എന്ന് വച്ചാൽ "മുന്നോട്ട്" "ക്രാസ്സ്" എന്ന് വച്ചാൽ "അടുത്ത ദിവസം" അല്ലെങ്കിൽ "നാളെ" അപ്പോൾ പ്രോക്രാസ്റ്റിനേഷൻ എന്നുവച്ചാൽ ഇന്ന് ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ നാളേയ്ക്ക് നീട്ടി വച്ച് "നാളെ നാളെ നീളെ നീളെ" ആകുന്നതിനെയാണ് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും ചെയ്ത് തീർക്കുന്ന കാര്യങ്ങളും തമ്മിൽ വലിയ ഒരു വിടവുണ്ടാകും അതായത് രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ തീരുമാനിക്കുകയാണ് "ഇന്ന് രാത്രി 12 മണിക്കകം ഞാൻ ഈ നോവൽ വായിച്ചു തീർക്കും" എന്ന് നിങ്ങൾ ഉറക്കം തൂങ്ങി ആയിരിക്കും വായിക്കുന്നത് വായിച്ചു തീർക്കാൻ ഇനി 5 പേജ് കൂടിയേ ഉണ്ടാവുകയുള്ളു പക്ഷെ അപ്പോഴേക്കും നിങ്ങൾ മറ്റു പല കാര്യങ്ങളിലേക്കും ശ്രദ്ധ തിരിച്ചിട്ടുണ്ടാകും നിങ്ങൾ ഒന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ആ നോവൽ അന്നു തന്നെ വായിച്ചു തീർക്കാൻ പറ്റുമായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ ആ വിടവ് അതായത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും ചെയ്ത് തീർക്കുന്ന കാര്യങ്ങളും തമ്മിലുള്ള ആ വലിയ അന്തരം നിങ്ങളുടെ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യാനുള്ള പ്രവണതയെ ആണ് സൂചിപ്പിയ്ക്കുന്നത് അതുമൂലം നിങ്ങൾ തികച്ചും അനാവശ്യമായ കാര്യങ്ങൾക്ക് മുൻഗണ നൽകി ഏറ്റവും അത്യാവശ്യമായി ചെയ്യേണ്ട കാര്യങ്ങളെ മാറ്റി വയ്ക്കുന്നു അപ്പോൾ ഇത് പ്രോക്രാസ്റ്റിനേഷന്റെ ഒരു സൂചനയാണ് അങ്ങനെ ചെയ്യുന്നത് വഴി പിന്നീട് നിങ്ങൾക്ക് വല്ലാത്ത പരിഭ്രമം വരികയും "നേരത്തെ ചെയ്താൽ മതിയായിരുന്നു" എന്നോർത്ത് ഒരുപാട് ദുഃഖിക്കുകയും ചെയ്യും പക്ഷെ അപ്പോഴേക്കും സമയം കടന്നു പോയിട്ടുണ്ടാകും പ്രോക്രാസ്റ്റിനേഷൻ എന്തിലേക്കാണ് നയിക്കുന്നത് പ്രോക്രാസ്റ്റിനേഷൻ മൂലം നമ്മൾ സമയവും അവസരങ്ങളും വെറുതെ പാഴാക്കുന്നു പക്ഷെ പിന്നീട് കയ്യിൽ വന്നിട്ടും പ്രോക്രാസ്റ്റിനെയ്റ്റ് ചെയ്ത് കളഞ്ഞ ആ അവസരങ്ങളെ പറ്റി നമ്മൾ ഓർക്കും ഇത് നമ്മുടെ മോശം പ്രകടനത്തിനും സ്വയം വിമർശനത്തിനും അവനവനെ തന്നെ അധിക്ഷേപിക്കുന്നതിനും കാരണമാകുന്നു അതുപോലെ തന്നെ ആത്മവിശ്വാസം തീരെ ഇല്ലാതായി നമ്മൾ ഒന്നിനും കൊള്ളാത്തവരാണ് എന്ന തോന്നൽ ഉണ്ടാവുകയും അത് പിന്നീട് മാനസിക സമ്മർദത്തിനും വിഷാദത്തിനും വഴി വെക്കുകയും ചെയ്യുന്നു അതേസമയം നിങ്ങൾക്ക് പ്രോക്രാസ്റ്റിനേഷൻ നിയന്ത്രിക്കാൻ സാധിച്ചാൽ എന്തെല്ലാം ഗുണങ്ങളാണ് അതുമൂലം ഉണ്ടാകുന്നത് പ്രോക്രാസ്റ്റിനേഷൻ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മാനസിക സമ്മർദത്തിൽ നിന്നും മോചനം കിട്ടും അത് നിങ്ങളെ വളരെ ശാന്തനാക്കുകയും സമാധാനമുള്ള മനസ്സിന് ഉടമയാക്കുകയും ചെയ്യും നിങ്ങൾ നിശ്ചയദാർഢ്യവും ഇച്ഛാശക്തിയും ഉള്ള ഒരു വ്യക്തിയാകുകയും ചെയ്യും നിങ്ങൾക്ക് പല കാര്യങ്ങളിലും നിയന്ത്രണമുണ്ടാകും ഉദാഹരണത്തിന് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ സാധിക്കും നിങ്ങൾക്ക് നല്ല ലക്ഷ്യബോധം ഉണ്ടാവുകയും ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുകയും ചെയ്യും സമയത്തെ വേണ്ട രീതിയിൽ മാനേജ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മറ്റു കാര്യങ്ങൾ ചെയ്യാനും നടപ്പിലാക്കാനുമുള്ള സമയം ലഭിക്കുകയുള്ളു അപ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ ശരിക്കും നിയന്ത്രിക്കാൻ സാധിക്കുന്നത് അതായത് പ്രോക്രാസ്റ്റിനേഷനിൽ ഒരു പിടുത്തം കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ ആത്മവിശ്വാസം വർധിക്കുകയും സ്വയം ഒരു മതിപ്പ് തോന്നുകയും ചെയ്യും പ്രോക്രാസ്റ്റിനേഷൻ എന്താണെന്നും അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്തെല്ലാമാണെന്നും നമുക്കെല്ലാം അറിയാം പക്ഷെ എന്നിട്ടും നമ്മൾ എന്തുകൊണ്ടാണ് പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നത് നമുക്ക് അജ്ഞാതമായ കാര്യങ്ങളെ മാനസികവും വൈകാരികവുമായ് ഭയക്കുമ്പോൾ ആണ് നമ്മൾ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നത് നമ്മൾ നാണം കെടുമെന്നോ തോൽക്കുമെന്നോ അല്ലെങ്കിൽ അവഗണന നേരിടുമെന്നോ ഭയപ്പെടുമ്പോൾ നമ്മൾ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നു നമുക്ക് തീരെ ആത്മവിശ്വാസം ഇല്ലാതായി നമ്മൾ ഒന്നിനും കൊള്ളാത്തവരാണെന്ന തോന്നൽ ഉണ്ടാവുമ്പോഴും നമ്മൾ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നു മറ്റുള്ളവർ നമ്മളെ പറ്റി എന്ത് കരുതും എന്ന് വെറുതെ വേവലാതി പെടുമ്പോൾ അതായത് "ഞാൻ അങ്ങനെ ചെയ്താൽ അവർ എന്ത് കരുതും ഞാൻ ഇങ്ങനെ ചെയ്താൽ ഇവർ എന്ത് വിചാരിക്കും" എന്നിങ്ങനെ അനാവശ്യമായി ആകുലപ്പെടുമ്പോൾ ഒരു മരവിച്ച അവസ്ഥയിലേക്ക് നമ്മൾ എത്തിചേരുകയും അത് നമ്മളെ പ്രോക്രാസ്റ്റിനേഷനിലേക്ക് നയിക്കുകയും ചെയ്യും നമ്മുടെ പ്രവർത്തിയുടെ ഫലം മോശമായിരിയ്ക്കും എന്ന ചിന്ത വരുമ്പോഴും നമ്മൾ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നു നമുക്ക് ഒരു നെഗറ്റീവ് മൈൻഡ് സെറ്റ് ആണുള്ളതെങ്കിൽ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് "ഞാൻ കഷ്ടപെട്ടാൽ ഈ ജോലി സമയത്ത് ചെയ്ത് തീർക്കാൻ പറ്റും പക്ഷെ അതുകൊണ്ട് എനിക്കൊരു നേട്ടവുമില്ല എന്റെ ബോസ്സ് ഒരിക്കലും എന്നെ പ്രശംസിക്കാൻ പോകുന്നില്ല ഞാൻ അർഹിക്കുന്ന അഭിനന്ദനം ഒന്നും എനിക്ക് കിട്ടാൻ പോകുന്നില്ല അത് വേറെ വല്ലോർക്കും ആയിരിക്കും കിട്ടുക പിന്നെ ഞാൻ ഇങ്ങനെ കഷ്ടപെടുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത് " എന്നായിരിക്കും പക്ഷെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി അല്ലാതെ നമുക്ക് വേണ്ടി ആയിരിക്കണം ജോലി സമയത്ത് ചെയ്തു തീർക്കേണ്ടത് പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നത് എപ്പോഴാണ് നമ്മൾ നന്നായി മടി പിടിച്ചിരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് നല്ല തളർച്ചയുണ്ടാകും ചിലപ്പോൾ മടി ആയിരിക്കും അപ്പോൾ നമുക്ക് വെറുതെ ഇരിക്കണമെന്നും റിലാക്സ് ചെയ്യണമെന്നും തോന്നും ഇതും പ്രോക്രാസ്റ്റിനേഷന് ഒരു കാരണമാണ് ന്യൂട്ടൺ ന്റെ ആദ്യത്തെ ലോ ഓഫ് മോഷൻ അഥവാ ചലനനിയമത്തിൽ "ഇനേർഷ്യ" യെ പറ്റി പറയുന്നത് പോലെ "ഒരു വ്യക്തി മടി പിടിച്ചിരിക്കുകയാണെങ്കിൽ അയാൾക്ക് ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും അയാൾ മടി പിടിച്ചിരിക്കുക തന്നെ ചെയ്യും" ഒരു ശാരീരിക അവസ്ഥയിൽ "ഇനേർഷ്യ" അഥവാ "നിശ്ചലാവസ്ഥ" നിശ്ചലാവസ്ഥയെ തന്നെ സൃഷ്ടിക്കുന്നു അത് നിങ്ങളെ എഴുന്നേൽക്കാൻ അനുവദിക്കില്ല ന്യൂട്ടൺ അദ്ദേഹത്തിന്റെ ആദ്യ ചലന നിയമത്തിൽ പറയുന്നത് "പുറമെ നിന്ന് ബലമൊന്നും പ്രായോഗിക്കാത്ത കാലത്തോളം നിശ്ചലാവസ്ഥയിലുള്ള വസ്തു നിശ്ചലമായും ചലിക്കുന്ന വസ്തു അതെ വേഗത്തിലും ദിശയിലും ചലനാവസ്ഥയിലും തുടരും" An object at rest stays at rest and an object in motion stays in motion with the same speed and in the same direction unless acted upon by an unbalanced force എന്നാണ് ഒരു വ്യക്തി വിശ്രമിക്കുകയാണെങ്കിൽ അയാൾക്ക് ആ അവസ്ഥയിൽ തന്നെ തുടരാനാണ് ഇഷ്ടം അതെ സമയം ഒരു വ്യക്തി എന്തെങ്കിലും ഒരു പ്രവൃത്തിയിൽ ഏർപെടുകയാണെങ്കിൽ മറ്റെന്തെങ്കിലും തടസ്സം ഉണ്ടാകുന്നത് വരെ അയാൾക്ക് അതെ വേഗതയിൽ ആ പ്രവൃത്തി തന്നെ ചെയ്തു കൊണ്ടിരിക്കാനാണ് ഇഷ്ടം രണ്ട് കൂട്ടർക്കും അവർ എന്ത് ചെയ്യുന്നുവോ അത് തന്നെ തുടരാനാണ് ഇഷ്ടം ഇനേർഷ്യ യെ നമുക്ക് വിശ്രമിക്കുന്ന വ്യക്തിയെ മാറ്റമൊന്നുമില്ലാതെ വിശ്രമാവസ്ഥയിൽ തുടരാൻ പ്രേരിപ്പിക്കുന്ന മനുഷ്യന്റെ ഒരു പ്രവണതയായും വ്യാഖ്യാനിക്കാം ബാഹ്യ ശക്തികളുടെ വളരെ ശക്തമായ ഇടപെടൽ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ അവസ്ഥയിൽ നിന്നും മാറാൻ സാധിക്കുകയുള്ളു അതായത് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഓടാൻ തന്നെയാണ് സുഖം അതുപോലെ തന്നെ വിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയോട് എഴുന്നേൽക്കാൻ പറഞ്ഞാൽ അത് അയാളെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും എന്നുവച്ചാൽ എഴുന്നേൽക്കുന്നതിനേക്കാൾ അയാൾക്ക് സുഖം കിടക്കുന്നത് തന്നെയാണ് അതുകൊണ്ടാണ് മടിപിടിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് പിന്നെ ഒരിടത്ത് കിടക്കാൻ മാത്രം തോന്നുന്നത് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണമെങ്കിൽ പോലും മറ്റൊരാളെ ആശ്രയിക്കേണ്ടി വരുന്നത് ഇതുകൊണ്ടാണ് നമുക്ക് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന വിഷയത്തിലേക്ക് തിരിച്ചു വരാം എന്തുകൊണ്ടാണ് നമ്മൾ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നത് നിങ്ങൾ ഒരു പെർഫെക്ഷനിസ്റ്റ് ആണെങ്കിൽ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് കാരണം നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ജോലി ഒരു കുറവുകളുമില്ലാതെ ചെയ്തു തീർക്കണമെന്നായിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ നിങ്ങൾ അതിനു വേണ്ടിയുള്ള ധനസഹായത്തിന് വേണ്ടിയും അതിന് ആവശ്യമായ റിസോഴ്സിനു വേണ്ടിയും കാത്തിരിക്കും ആ ജോലി ചിലപ്പോൾ ഒരു പുസ്തകം എഴുതുന്നതാകാം നിങ്ങളുടെ പ്രബന്ധം തയ്യാറാക്കുന്നതാകാം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കലാസൃഷ്ടി പൂർത്തീകരിക്കുന്നതാകാം നിങ്ങളുടെ ആ ജോലി എന്ത് തന്നെ ആയാലും അത് ഏറ്റവും ശ്രേഷ്ടമാകണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇത്തരം പ്രവണതകളെ എങ്ങനെ മറികടന്ന് പ്രോക്രാസ്റ്റിനേഷൻ എങ്ങനെ ഒഴിവാക്കാം എന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ഒരു പെർഫെക്ഷനിസ്റ്റ് ആയാലും നിങ്ങൾ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യും ചിലപ്പോൾ ജയിച്ചാലോ എന്നു പേടിച്ചും നമ്മൾ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യാം കാരണം നിങ്ങൾ ഒരു ഉദ്യമത്തിൽ ജയിച്ചാൽ അത് കൂടുതൽ ഉത്തരവാദിത്തങ്ങളിലേക്കും ചുമതലകളിലേക്കും നയിക്കും അത് ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവില്ല നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും അഡിക്ഷൻ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ചും ചീത്ത അഡിക്ഷൻസ് പുകവലി ച്യൂയിങ് ഗം ചവയ്ക്കൽ സിനിമ കാണൽ നെറ്റ് ബ്രൌസിംഗ് ചാറ്റിങ്ങ് ഇതെല്ലം നിങ്ങളുടെ സമയം പാഴാക്കുമെന്ന് മാത്രമല്ല നിങ്ങൾക്ക് ഒരു അഡ്രിനാലിൻ റഷ് നൽകുകയും ചെയ്യും ഈ അഡ്രിനാലിൻ റഷ് മൂലം നിങ്ങൾ ആനന്ദിക്കുകയാണ് എന്ന സന്ദേശം ആണ് നിങ്ങളുടെ തലച്ചോറിന് ലഭിക്കുന്നത് അത് നിങ്ങൾക്ക് ഒരു സുഖവും നൽകും പക്ഷെ നിങ്ങൾ ഇവയെല്ലാം പ്രോക്രാസ്റ്റിനേറ്റർ ആയി പ്രവർത്തിക്കുന്നണ്ടോ എന്ന് കണ്ടെത്തണം വീണ്ടും നമ്മൾ എപ്പോഴാണ് പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ജോലി മറ്റാരെങ്കിലും ചെയ്തോളും എന്ന് കരുതുമ്പോൾ വെറുതെയാണെങ്കിലും നമ്മൾ നമ്മളെ ഏല്പിച്ചിരിക്കുന്നു ജോലി മറ്റാരെങ്കിലും ചെയ്തു തീർത്തിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരാണ് പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യാനുള്ള മറ്റൊരു കാരണം വൈകുംതോറും ജോലി ഇല്ലാതാകും എന്ന വ്യാമോഹമാണ് പക്ഷെ ഇത് അവിവേകം ആണ് ജോലി വൈകുന്തോറും അതിന്റെ കാലികമായ പ്രസക്തി നഷ്ടപ്പെടുകയും പിന്നെ അത് ചെയ്യേണ്ട കാര്യം ഇല്ല എന്ന ഒരു തോന്നൽ ഉണ്ടാവുകയും ചെയ്യും ചിലർ ഇത് ഒരു ഉപായം ആയി എടുത്തിട്ട് ജോലിയിൽ നിന്നും തടി തപ്പാനും നോക്കും വേറെ എപ്പോഴാണ് നമ്മൾ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നത് ജോലിഭാരം തീരെ താങ്ങാൻ വയ്യാണ്ടാകുമ്പോഴും നമ്മൾ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ നിസ്സാര കാര്യങ്ങൾ പോലും നമ്മൾ പെരുപ്പിച്ച് കാണാൻ തുടങ്ങും വളരെ ചെറിയ ഒരു പ്രവൃത്തി പോലും തീരെ ചെയ്യാൻ പറ്റാത്ത ഒന്നായി നിങ്ങൾക്ക് അനുഭവപ്പെടും ഞാൻ തന്നിരിക്കുന്ന ഈ കാർട്ടൂൺ നിങ്ങൾ ശ്രദ്ധിക്കുക ജോലിഭാരം തീരെ താങ്ങാൻ വയ്യാത്ത ഒരു പ്രോക്രാസ്റ്റിനേറ്ററുടെ മനസ്സാണ് ഇതിൽ ചിത്രീകരിച്ചിട്ടുള്ളത് തനിക്ക് മുന്നിലുള്ള ജോലി തൂണുപോലെ വളർന്ന് വലുതാകുകയാണെന്നാണ് ഇയാൾക്ക് തോന്നുന്നത് ജോലിയെ പറ്റി ആലോചിച്ച് തല പുണ്ണാക്കിയിട്ടൊന്നും ഒരു കാര്യവുമില്ല അതുകൊണ്ട് കുറച്ചു നേരം ഇന്റർനെറ്റ് നോക്കി ഇരിക്കാം എന്നാണ് ഇയാൾ പറയുന്നത് നമ്മളും 1 മിനിറ്റ് ഇന്റർനെറ്റിൽ ചിലവഴിക്കാം എന്നായിരിക്കും കരുതുന്നത് പക്ഷെ ഈ 1 മിനിറ്റ് ഒരിക്കലും 1 മിനിറ്റായി ചുരുങ്ങുകയില്ല മിനിറ്റ് എന്നുള്ളത് മിനിറ്റുകൾ ആവുകയും അത് മണിക്കൂറുകൾ ആവുകയും അത് പിന്നീട് ദിവസങ്ങൾ ആവുകയും ചെയ്യും ഒരു തിരിച്ചുവരവ് അത്ര എളുപ്പം സാധ്യമല്ല ജോലിഭാരം താങ്ങാൻ പറ്റാതെ വന്നപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധ നഷ്ടപ്പെടുകയും ഇന്റർനെറ്റിൽ ലഭ്യമായ നിസ്സാര കാര്യങ്ങളിൽ നിങ്ങൾ സുഖം കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്തു അതുകൊണ്ടാണ് ഏതോ ബുദ്ധിമാൻ യൂട്യൂബ് വിക്കിപീഡിയ ട്വിറ്റെർ ഫേസ്ബുക്ക് എന്നിവയെ "വെപ്പൺസ് ഓഫ് മാസ്സ് ഡിസ്ട്രാക്ഷൻ" അഥവാ "കൂട്ടത്തോടെ ശ്രദ്ധ തിരിക്കാനുള്ള ആയുധങ്ങൾ" എന്ന് വിളിച്ചത് എന്റെ അഭിപ്രായത്തിൽ ഈ മാസ്സ് ഡിസ്ട്രാക്ഷൻ ശരിക്കും മൈൻഡ് ഡിസ്ട്രക്ഷൻ ആണ് ഈ മാസ്സ് ഡിസ്ട്രാക്ഷനിൽ നിങ്ങൾ വീണു പോവുകയാണെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങളെ ഏല്പിച്ച ജോലി ചെയ്തു തീർക്കാനുള്ള നിങ്ങളുടെ ഇച്ഛാ ശക്തി നഷ്ടപ്പെടും ക്രീയേറ്റീവ് ആയി ചിന്തിക്കാനുള്ള നിങ്ങളുടെ മനസ്സിന്റെ കഴിവ് നഷ്ടപ്പെടും നിങ്ങളെ നിങ്ങൾ ആക്കുന്ന പലതും ഇല്ലാതായി നിങ്ങൾ മറ്റൊരു വ്യക്തിയായി മാറുകയും ചെയ്യും അതുകൊണ്ട് ശ്രദ്ധ നഷ്ടപെടുത്താതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യാനുള്ള മറ്റൊരു കാരണം എന്തായിരിക്കും പീറ്റർ പാൻ സിൻഡ്രം അതിനൊരു കാരണമാണ് ആരാണ് പീറ്റർ പാൻ എന്താണ് ഈ അവസ്ഥ സ്കോട്ടിഷ് നാടകകൃത്തായ ജി Barry സൃഷ്ടിച്ച ഒരു കഥാപാത്രമാണ് പീറ്റർ പാൻ പറക്കാൻ കഴിവുള്ള ഒരു കുട്ടി എന്ന നിലയ്ക്കാണ് പീറ്റർ പാൻ അനശ്വരനാകുന്നത് പക്ഷെ പീറ്റർ പാൻ ശാരീരികമായി വളരുന്നുണ്ടെങ്കിലും അവൻ എപ്പോഴും ഒരു കുട്ടിയായിട്ടാണ് ഇരിക്കുന്നത് മുതിർന്ന ഒരു വ്യക്തി ആകുന്നുണ്ടെങ്കിലും പീറ്റർ പാൻ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും കുട്ടികളെ പോലെയാണ് ഇതിൽ നിന്നാണ് സൈക്കോളജിസ്റ്റുകൾ "പീറ്റർ പാൻ സിൻഡ്രം" എന്ന പദം ഉരുത്തിരിച്ചെടുക്കുന്നത് വൈകാരികവും സാമൂഹികവുമായ പക്വത ഇല്ലായ്മയെ ആണ് "പീറ്റർ പാൻ സിൻഡ്രം" കൊണ്ട് സൂചിപ്പിക്കുന്നത് ഇങ്ങനെ ഉള്ള വ്യക്തികൾക്ക് മാനസികമായി വളരാൻ തോന്നുകയുമില്ല ചിലപ്പോൾ സാധിക്കുകയുമില്ല ശരീരം കൊണ്ട് ഇവർ വലുതായിരിക്കും പക്ഷെ പെരുമാറ്റം ഒരു കുട്ടിയുടേതായിരിക്കും എന്തെങ്കിലും പ്രവൃത്തി ചെയ്യണമെങ്കിൽ ഇക്കൂട്ടരുടെ പിറകെ നടന്ന് വാഗ്ദാനങ്ങൾ നൽകേണ്ടി വരും ഉദാഹരണത്തിന് ഒരു കുട്ടിയെ കൊണ്ട് ഒരു കാര്യം ചെയ്യിക്കാനായി "ഇത് ചെയ്താൽ മിഠായി വാങ്ങിച്ചു തരാം" "പരീക്ഷ ജയിച്ചാൽ ഐസ്ക്രീം വാങ്ങി തരാം" എന്ന് പറയാറില്ലേ അതുപോലെ ഇവരെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിക്കാനായി ഇതുപോലെ ഓരോന്ന് പറയേണ്ട അവസ്ഥയാണ് ഉള്ളത് ഇനി ചെയ്ത കാര്യം ശരിയായില്ലെങ്കിൽ മറ്റുള്ളവരെ ഇവർ ഉറപ്പായും പഴി ചാരും എന്തെങ്കിലും തെറ്റ് ചെയ്താൽ "ഞാനല്ല ഇവളാണ് ഇത് ചെയ്തത്" എന്ന് കുട്ടികൾ പറയില്ലേ അതുപോലെ ഉത്തരവാദിത്തങ്ങൾ ഒഴിവാക്കുന്നതും അതിൽ നിന്നുള്ള ഒളിച്ചോട്ടവും നിരുത്തരവാദിത്തപരമായ പെരുമാറ്റവും ഇവർ എപ്പോഴും കാണിക്കും ഒരു സാമൂഹിക പ്രതിബദ്ധതയോ മാനസികമായ പക്വതയോ ഇവർക്കുണ്ടാവില്ല അപ്പോൾ ഇതാണ് "പീറ്റർ പാൻ സിൻഡ്രം" നിങ്ങൾക്ക് ഈയൊരു അവസ്ഥ ഉണ്ടോ എന്ന് സ്വയം പരിശോധിക്കുക ഇപ്പോഴും ഒരു കുട്ടിത്തം ആണോ നിങ്ങൾക്കുള്ളത് കുട്ടികളെ പോലെ ജോലിയിൽ നിന്നും ഒഴിവാക്കാൻ ശ്രമിക്കാറുണ്ടോ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മാനസികമായി വളരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഡിലെ അഥവാ കാലതാമസം വരുത്തുന്നതിന്റെ അപകടവശങ്ങൾ എന്തെല്ലാമാണെന്ന് ചർച്ച ചെയ്തുകൊണ്ട് നമുക്ക് ഈ ക്ലാസ്സ് അവസാനിപ്പിക്കാം കാലതാമസം എന്ത് കാര്യവും പൂർണമായി നിരസിക്കുന്ന ഒരു അവസ്ഥയിൽ വരെ നിങ്ങളെ കൊണ്ട് ചെന്നെത്തിക്കും ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ഒരു കഥയാണ് ലിയോ ടോൾസ്റ്റോയ് യുടെ "ഗോഡ് സീസ് ദി ട്രൂത്ത് ബട്ട് വെയ്റ്റ്സ്" God Sees the Truth but Waits നിങ്ങളിൽ പലരും ഈ കഥ വായിച്ചിട്ടുണ്ടാകണം വായിക്കാത്തവർക്ക് ഇത് ഓൺലൈനിൽ ലഭ്യമാണ് ഈ കഥയിലെ നായകൻ ഒരു സമ്പന്നനായ ചെറുപ്പക്കാരനാണ് അയാൾ സമ്പത്തും സൌന്ദര്യവും ഉള്ള ഒരു പെൺകുട്ടിയെയാണ് കല്യാണം കഴിച്ചത് അയാൾക്ക് ഒരു ദിവസം ഉത്സവത്തിന് പോകാൻ ആഗ്രഹം തോന്നി പക്ഷെ അയാളുടെ ഭാര്യ അയാളെ വിലക്കി അവർ ഒരു സ്വപ്നം കണ്ടെന്നും ആ സ്വപ്നത്തിൽ അയാൾ നരച്ച മുടിയുമായാണ് തിരിച്ചു വന്നതെന്നും കയ്യിൽ ചോരക്കറ ഉണ്ടായിരുന്നു എന്നും അതിനാൽ തനിക്ക് വല്ലാത്ത പരിഭ്രമം തോന്നുന്നുവെന്നും അവർ പറഞ്ഞു ഭാര്യ പറഞ്ഞതെല്ലാം അയാൾ ചിരിച്ച് തള്ളി ആ ഉത്സവത്തിന് പോയി അവിടെ വച്ച് അയാൾ മറ്റൊരു സമ്പന്നനായ ബിസിനസ്സുകാരനെ കണ്ടു അവർ രണ്ടുപേരും ഒരുപാട് സമയം സംസാരിച്ചിരുന്നു ഒടുവിൽ ആ രാത്രി ഒരു സത്രത്തിൽ കഴിച്ചുകൂട്ടാം എന്നും തീരുമാനിച്ചു സത്രത്തിൽ ചെന്നിട്ടും അവർ ഒരുപാട് നേരം സംസാരിച്ചിരിക്കുകയും പിന്നീട് അടുത്തടുത്ത് കിടന്നുറങ്ങുകയും ചെയ്തു പിറ്റേന്ന് രാവിലെ നമ്മുടെ കഥാനായകൻ നേരത്തെ എഴുന്നേറ്റ് വീട്ടിലേക്ക് തിരിച്ചു പക്ഷെ വഴിയിൽ വച്ച് കുറച്ച് പോലീസുകാർ അയാളെ അറസ്റ്റ് ചെയ്തു എന്തിനാണെന്നോ അയാൾ കഴിഞ്ഞ ദിവസം സമയം ചിലവഴിച്ച ആ ബിസിനസുകാരന്റെ കൊലപാതക കുറ്റത്തിന് അയാൾ കിടന്ന തലയണക്കു കീഴിൽ നിന്നും ഒരു കത്തി കണ്ടെത്തുകയും ചെയ്തു സാഹചര്യ തെളിവുകൾ നമ്മുടെ കഥാനായകന് എതിരായിരുന്നു അതിനാൽ അയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു അയാളുടെ ഭാര്യയ്ക്കും അയാൾ തന്നെയാണ് കുറ്റവാളി എന്ന് തോന്നുന്നു കാരണം അവരുടെ സ്വപ്നം യാഥാർഥ്യമാവുകയാണ് ഇവിടെ ചെയ്തത് ഇത് ആ യുവാവിനെ ഒത്തിരി വേദനിപ്പിക്കുന്നു അങ്ങനെ അയാൾ തന്റെ പിന്നീടുള്ള കാലം തടവറയിൽ ചിലവഴിക്കുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം യഥാർത്ഥ കുറ്റവാളി ജയിലിൽ എത്തുന്നത് ഇയാളും മറ്റു ചില തടവുപുള്ളികളും ചേർന്ന് ഒരു തുരങ്കമുണ്ടാക്കി ജയിലിൽ നിന്ന് രക്ഷപെടാൻ ആസൂത്രണം ചെയ്തു ഇത് ഒരു പോലീസുകാരന്റെ ശ്രദ്ധയിൽ പെട്ടു പോലീസുകാരൻ നായകനോട് സത്യം പറയാൻ ആവശ്യപ്പെട്ടു പക്ഷെ അയാൾ വളരെ താഴ്മയോടെ "പറ്റില്ല" എന്ന് പറഞ്ഞു അയാളുടെ ഈ പ്രവൃത്തി കണ്ട് യഥാർത്ഥ കുറ്റവാളി കുറ്റം സമ്മതിച്ചു പക്ഷെ നമ്മുടെ കഥാനായകനെ ജയിൽ മോചിതനാക്കികൊണ്ടുള്ള ഉത്തരവ് വന്നപ്പോഴേക്കും അയാൾ മരിച്ചു കഴിഞ്ഞിരുന്നു ടോൾസ്റ്റോയി ഈ കഥയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് "നീതി വൈകുന്നത് നീതി നിഷേധിക്കപെടുന്നതിന് തുല്യമാണ്" എന്നാണ് പക്ഷെ ഇത് നീതിയുടെയോ ന്യായത്തിന്റെയോ കാര്യത്തിൽ മാത്രമല്ല എന്ത് കാര്യം നിങ്ങൾ വൈകിച്ചാലും അത് ഇല്ലാതാക്കുന്നതിന് തുല്യമാണ് അത് നിങ്ങൾക്ക് വേണ്ടി ആയാലും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ആയാലും നിങ്ങളുടെ ചുറ്റുപാടുകൾ ആവശ്യപ്പെടുന്നത് കൊണ്ടായാലും എന്ത് കാര്യം വൈകിച്ചാലും നിങ്ങൾ ആ കാര്യത്തിന്റെ പ്രസക്തി ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് എന്ത് കാര്യവും നിഷേധിക്കുന്ന ഒരു ജീവിതവും എന്ത് കാര്യവും ചെയ്യുന്ന ഒരു ജീവിതവും ഒന്ന് താരതമ്യം ചെയ്തു നോക്കിക്കേ നമ്മൾ ആദ്യം പറഞ്ഞ ജീവിതത്തിൽ ജീവിതാവസാനം വരെ നിങ്ങൾക്ക് പശ്ചാത്താപം മാത്രമേ ഉണ്ടാവുകയുള്ളു റോബിൻ ശർമ്മ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടി നമുക്ക് നോക്കാം അദ്ദേഹം പറയുന്നു "തുടക്കം കുറിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാനുമാകില്ല"you can't win if you don't begin ഇത് എത്ര ശരിയാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ ഇതേ അർഥം വരുന്ന മറ്റൊരു പഴംചൊല് ആണ് "ആയിരം മൈലുകളുടെ ഒരു യാത്ര പോലും തുടങ്ങുന്നത് ഒരു ചുവടുവയ്പ്പിലൂടെ ആണ്" The journey of a thousand miles start with a first step ആ ആദ്യ ചുവടുവയ്പ്പ് ഇല്ലെങ്കിൽ ആ യാത്രയും ഇല്ല ക്ലാസ് അവസാനിപ്പിക്കുന്നതിന് മുൻപ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഉദ്ധരണി നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് "പ്രതിബദ്ധതയെ ഞാൻ ഭയക്കുന്നില്ല പക്ഷെ സമയം പാഴാക്കുന്നതിനെ ഞാൻ ഭയപ്പെടുന്നു" മറ്റുള്ളവർക്ക് വേണ്ടി പല കാര്യങ്ങളും പ്രതിബദ്ധതയുടെ പേരിൽ നമുക്ക് ഏറ്റെടുക്കേണ്ടി വരാറുണ്ട് പക്ഷെ ജോലി ഏറ്റെടുക്കുന്നതിനെയല്ല ഭയക്കേണ്ടത് ജോലി ഏറ്റെടുക്കുക എന്നുവച്ചാൽ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്നാണ് പക്ഷെ പ്രതിബദ്ധതയുടെ പേരിൽ മറ്റുള്ളവർ നമ്മുടെ സമയം പാഴാക്കുന്നതിനെ ഭയപ്പെടണം അടുത്ത ക്ലാസ്സിൽ സമയം എങ്ങനെ ലാഭിക്കാമെന്നും സമയം കൊല്ലുന്നവരിൽ നിന്നും എങ്ങനെ സ്വയം രക്ഷപെടാം എന്നും നമുക്ക് ചർച്ച ചെയ്യാം അതുപോലെ തന്നെ പ്രോക്രാസ്റ്റിനേഷൻ എങ്ങനെ പൂർണമായി ഒഴിവാക്കാമെന്നും നമുക്ക് നോക്കാം ഇനി നിങ്ങൾ എന്തായാലും വായിച്ചിരിക്കേണ്ട കുറച്ചു പുസ്തകങ്ങളുടെ ലിസ്റ്റ് ഞാൻ തരാം നിങ്ങൾക്ക് കയ്യിലുള്ള സമയം പ്രയോജനപ്പെടുത്തണം എന്നും പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യാതിരിക്കണം എന്നുമുണ്ടെങ്കിൽ ബ്രയൻ ട്രേസി യുടെ 4 പുസ്തകമെങ്കിലും വായിക്കണം ഈറ്റ് ദാറ്റ് ഫ്രോഗ് ഗെറ്റ് പെയ്ഡ് മോർ ആൻഡ് പ്രൊമോട്ടഡ് ഫാസ്റ്റർ ഫോക്കൽ പോയിന്റ്സ് ഗോൾസ് ഹൌ റ്റു ഗെറ്റ് എവരിതിങ് യൂ വാണ്ട് ഫാസ്റ്റർ താൻ യു എവർ തോട്ട് പോസ്സിബിൾ Goals How To Get Everything You Want - Faster Than You Ever Thought Possible അതുപോലെ തന്നെ കെൻ സയ്ഗ്ലർ എഴുതിയ ഗെറ്റിങ് ഓർഗനൈസ്ഡ് അറ്റ് വർക്ക് എന്ന പുസ്തകവും നിങ്ങൾ വായിച്ചിരിക്കണം പീറ്റർ പാൻ നെ പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ സമർഥരായ വ്യക്തികൾ പോലും എന്തുകൊണ്ട് തോറ്റു പോകുന്നു എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ സൈക്കോളജി ടുഡേ യിൽ പ്രസിദ്ധീകരിച്ച ഒരു ആർട്ടിക്കിളി ന്റെ ലിങ്ക് ഞാൻ ഇവിടെ തരാം എന്റെ കൂടെ ഈ ക്ലാസിനു വേണ്ടി സമയം ചിലവഴിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെ സമയം ഫലപ്രദം ആയിരുന്നു എന്ന് കരുതുന്നു ഈ കോഴ്സിലെ വീഡിയോസ് കാണാൻ വേണ്ടി നിങ്ങൾ സമയം കണ്ടെത്തുക എന്നിട്ട് അസൈന്മെന്റുകൾ നിർദിഷ്ട സമയത്തു തന്നെ ചെയ്തു തീർക്കുക ഈ കോഴ്സ് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ എല്ലാ വിധ ഭാവുകങ്ങളും നേരുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം